ഇൻഡസ്ട്രി 4 0 ൽ നമ്മൾ സംസാരിക്കുന്നത് IoT IIoT Industrial IoT എന്നിവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് അവ പ്രധാനമായും വ്യത്യസ്ത സെൻസറുകളുടെയും ആക്യുവേറ്ററുകളുടെയും ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഈ സെൻസറുകൾ സാധാരണയായി വ്യത്യസ്തമായ ധാരാളം ഡാറ്റ മനസ്സിലാക്കുന്നു അവ തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ഡാറ്റ തുടർച്ചയായി അയയ്ക്കുന്നു അതിനാൽ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഡാറ്റയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ IoT IIoT ഇൻഡസ്ട്രി 4 0 എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഡാറ്റ വലിയ ഡാറ്റ എന്നറിയപ്പെടുന്ന ഒന്നിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നു അതിനാൽ ഡാറ്റയുടെ വലിയതും പരമ്പരാഗതവുമായ രൂപങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യണം അതിൽ നിന്ന് അർത്ഥം ശേഖരിക്കണം അതിനാൽ AI യിലെ മെഷീൻ ലേണിംഗിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിച്ചതെന്തും ഈ വിശകലനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്തരം രീതികൾ ഇവിടെയും ബാധകമാണ് അതിനാൽ അനലിറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലിറ്റിക്സ് മെഷീൻ ലേണിംഗ് അധിഷ്ഠിത അനലിറ്റിക്സ് ന്യൂറൽ നെറ്റ്വർക്കുകളുടെ വിവിധ രീതികളുടെ ഉപയോഗം എസ്വിഎം ഇവയെല്ലാം ഡാറ്റ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കാം സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾക്ക് പുറമേ നമുക്കെല്ലാവർക്കും പരിചിതമായ മൾട്ടിവേറിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ അതിനാൽ ഡാറ്റ വിശകലനം ചെയ്യാനും അവ ഉപയോഗിക്കാം അതിനാൽ IIoT യിലെ ഈ IoT ഉപകരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഡാറ്റയിൽ നിന്ന് അർത്ഥം നേടാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നതാണ് പ്രധാനം അപ്പോൾ എന്താണ് വലിയ ഡാറ്റ അതിനാൽ പ്രോസസ്സിംഗ് ടൂളുകളും പരമ്പരാഗത ഡാറ്റാബേസുകളും പരമ്പരാഗത പ്രോസസ്സിംഗ് ടൂളുകളും കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര വലിയ ഡാറ്റ അതിനാൽ ഘടനയില്ലാത്ത ഡാറ്റയുടെ സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്നവയാണ് ബിഗ് ഡാറ്റ എന്നാൽ അവയ്ക്ക് ഘടനാപരമായ ഡാറ്റയും ഉണ്ടായിരിക്കാം ഘടന ഡാറ്റ എന്താണ് അർത്ഥമാക്കുന്നത് വ്യത്യസ്ത ഡാറ്റാബേസുകളിൽ പട്ടികകളുടെ രൂപത്തിൽ സംഭരിക്കാൻ കഴിയുന്നവയാണ് ഘടനാപരമായ ഡാറ്റ ഉദാഹരണത്തിന് റിലേഷണൽ ടേബിളുകൾ അതിനാൽ ഉദാഹരണത്തിന് MySQL Oracle പോലുള്ള ഡാറ്റാബേസുകൾ അവർ റിലേഷണൽ ടേബിളുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഈ ടേബിളുകളുടെ രൂപത്തിൽ നിങ്ങൾക്ക് ആ ഡാറ്റ ഈ റിലേഷണൽ ടേബിളുകളിൽ സംഭരിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഈ ഡാറ്റ സംഭരിക്കാനാകും അത് ഡാറ്റ സംഭരിക്കുന്നതിനുള്ള ഘടനാപരമായ മാർഗമാണ് എല്ലാത്തരം ഡാറ്റയും ടേബിളുകളുടെ രൂപത്തിൽ സംഭരിക്കാമെന്നല്ല അതിനാൽ ചില ഡാറ്റ ഉദാഹരണത്തിന് വെബ് ബ്ലോഗുകൾ ഫേസ്ബുക്ക് ചാറ്റുകൾ ചിത്രങ്ങൾ പത്രം ബ്ലോഗുകൾ അതിനാൽ ഇവയെല്ലാം ഡാറ്റയുടെ ഘടനാരഹിതമായ സ്വഭാവം പ്രദർശിപ്പിക്കും അവ ഉപയോഗിക്കാൻ കഴിയില്ല പരമ്പരാഗത രൂപത്തിൽ അവ റിലേഷണൽ ടേബിളുകളിൽ സൂക്ഷിക്കാൻ കഴിയില്ല അതിനാൽ ഇവ വലിയ ഡാറ്റ പോലെയാണ് ഘടനയില്ലാത്തതും ഘടനാപരമായതുമായ ഡാറ്റയാണ് അവ ചില വഴികളിൽ കൈകാര്യം ചെയ്യേണ്ടിവരും അതിനാൽ വലിയ ഡാറ്റയുടെ ചില പ്രധാന ആട്രിബ്യൂട്ടുകൾ നമുക്ക് നോക്കാം ഞങ്ങൾ ഡാറ്റയുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് ഏറ്റെടുക്കൽ ഡാറ്റ വോളിയം വേഗത്തിലാക്കുന്നു ഡാറ്റ സ്വഭാവം വിജയകരമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള പരമ്പരാഗത അസോസിയേറ്റ് രീതികൾ ഉപയോഗിക്കുന്നതിനുള്ള ശേഷി പരിമിതപ്പെടുത്തുന്നു പ്രധാനപ്പെട്ട തിരശ്ചീന സൂം സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് വിജയകരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിശകലനം അല്ലെങ്കിൽ ഡാറ്റ ബിഗ് ഡാറ്റയുടെ ഈ നിർവചനങ്ങളിൽ ഒന്ന് പ്രകാരമാണിത് അതിനാൽ IoT IIoT എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഘടനാപരമായ ഡാറ്റയും ഘടനയില്ലാത്ത ഡാറ്റയും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു അതിനാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഘടനാപരമായ ഡാറ്റയാണ് സാധാരണ റിലേഷണൽ ടേബിളുകളിൽ സംഘടിത രീതിയിൽ എളുപ്പത്തിൽ സംഭരിക്കാൻ കഴിയുന്നവയാണ് അതിനാൽ നിങ്ങൾക്ക് ഈ ഡാറ്റ പട്ടികകളുടെ രൂപത്തിൽ സംഭരിക്കാൻ കഴിയുമെങ്കിൽ അവയിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് ഈ ടേബിളുകൾ അന്വേഷിക്കുന്നതിന് നിങ്ങൾക്ക് SQL സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ് പോലുള്ള ഒരു ഭാഷ ഉപയോഗിക്കാം എന്നിരുന്നാലും നിങ്ങൾ ഘടനയില്ലാത്ത ഡാറ്റയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഡാറ്റ RDBMS ടേബിളുകളുടെ രൂപത്തിൽ സംഭരിക്കാൻ കഴിയില്ല കൂടാതെ ഈ ഡാറ്റ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു മുൻനിശ്ചയിച്ച ഡാറ്റാ മോഡലും ഇല്ല അതിനാൽ അടിസ്ഥാനപരമായി ഇന്നത്തെ ലോകത്ത് നമ്മൾ നേരിട്ട മിക്ക ഡാറ്റയും ഘടനാരഹിതമായിരിക്കും അതിനാൽ ഇത്തരത്തിലുള്ള ഡാറ്റ വിശകലനം ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഇതിനകം പരിചിതമായ പരമ്പരാഗത ഡാറ്റാബേസ് ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല അതേസമയം ഈ ഡാറ്റ ഘടനാരഹിതമാണെന്ന് മാത്രമല്ല ഈ ഡാറ്റയും വലിയ അളവിൽ വരുന്നു അതിനാൽ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ സംഭരിക്കേണ്ട വലിയ ഡാറ്റാസെറ്റുകളെക്കുറിച്ചാണ് അതിനാൽ വോളിയം വൈവിധ്യം വേഗത എന്നിവയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്ന വലിയ ഡാറ്റയുടെ ഈ സവിശേഷതകളിൽ ചിലത് അതിനാൽ ബിഗ് ഡാറ്റ നിർവചിക്കുന്ന പ്രധാന 3 വികൾ ഇവയാണ് വ്യത്യസ്തത പ്രകടിപ്പിക്കുന്ന പ്രോസസ്സിംഗ് സെർവറിലോ പ്രോസസ്സിംഗ് ഏജന്റിലോ ഉയർന്ന വേഗതയിൽ എത്തിച്ചേരുന്ന വലിയ അളവിലുള്ള ഡാറ്റ ഇത്തരത്തിലുള്ള ഡാറ്റയെ പരമ്പരാഗതമായി ബിഗ് ഡാറ്റ എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഗവേഷകർ എന്ന നിലയിൽ വലിയ ഡാറ്റ കൂടുതലായി അവയിൽ ചില വ്യത്യസ്ത വശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് വശങ്ങൾ മറ്റ് V കൾ അതിനാൽ വേരിയബിലിറ്റി വിഷ്വലൈസേഷൻ മൂല്യം സത്യസന്ധത തുടങ്ങിയ മറ്റ് V കൾ അതിനാൽ ഇവ 4 അധിക V കളാണ് അത് വലിയ ഡാറ്റയെ വിശേഷിപ്പിക്കും അതിനാൽ വലിയ ഡാറ്റയെ ചിത്രീകരിക്കാൻ പരമ്പരാഗത 3 V കളും 4 V കളും 7 V കളും ഉപയോഗിക്കും അതിനാൽ നമുക്ക് ഇവയെ കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനാൽ നമുക്ക് 3 V യുടെ ആദ്യ വോള്യത്തെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ വോളിയം വേഗത വൈവിധ്യം അതിനാൽ ഈ 3 V കൾ നമുക്ക് പരിഗണിക്കാം അപ്പോൾ ഈ വോള്യം എന്താണ് ഈ വോളിയം ഞങ്ങൾ വിഷയപരമായി സംസാരിക്കുന്ന വലിയ അളവിലുള്ള ഡാറ്റയാണ് ഉദാഹരണത്തിന് ചില സെർവറിൽ ഏകദേശം 72 മണിക്കൂർ വീഡിയോ നമുക്ക് YouTube എന്ന് പറയാം നമുക്ക് ഉദാഹരണമായി എടുക്കാം അത് എന്തും ആകാം ഇത് വലിയ തരത്തിലുള്ള ഡാറ്റയും വോള്യത്തിൽ വളരെ വലുതുമാണ് നിങ്ങൾ വേഗതയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് ട്വിറ്ററിനെക്കുറിച്ചോ അല്ലെങ്കിൽ സമാനമായ മറ്റ് പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചോ സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്നത് പ്രതിദിനം ശരാശരി 100 ദശലക്ഷക്കണക്കിന് ട്വീറ്റുകളെക്കുറിച്ചാണ് അതിനാൽ ഡാറ്റയുടെ ഇത്തരത്തിലുള്ള വേഗത കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും തുടർന്ന് വൈവിധ്യവും ഈ വൈവിധ്യവും നിങ്ങൾക്ക് ഘടനാപരമായതും അല്ലാത്തതുമായ ഡാറ്റ ഉണ്ടായിരിക്കാം അതിനാൽ വിവിധതരം ഡാറ്റ ഉദാഹരണം ഇമേജ് ഡാറ്റ ടെക്സ്റ്റ് ഡാറ്റ പിന്നെ വീഡിയോ ഡാറ്റ എല്ലാം ഒരേ സമയം ഒരുമിച്ച് വരുന്നു അതാണ് വൈവിധ്യം അതിനാൽ വലിയ ഡാറ്റാ സന്ദർഭത്തിൽ ഞങ്ങൾ സാധാരണയായി ഡാറ്റയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് ഒരു പൈപ്പായി നിങ്ങൾക്ക് ചിന്തിക്കാം ഡാറ്റ തുടർച്ചയായി വരുന്ന ഒരുതരം പൈപ്പ് ഉയർന്ന വേഗതയിൽ ഡാറ്റയുടെ വലിയ അളവുകൾ വരുന്നു ഈ ഡാറ്റ ഈ ഡാറ്റയുടെ ഘടന വളരെ വ്യത്യസ്തമാണ് ടെക്സ്റ്റ് ഇമേജ് വീഡിയോ വ്യത്യസ്ത തരം എന്നിവ അതിനാൽ ഈ ഡാറ്റയെല്ലാം ഒരേ സമയം വരുന്നത് ഇത്തരത്തിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് പരമ്പരാഗത ഡാറ്റ വെയർഹൌസിംഗ് ഡാറ്റാബേസ് ടെക്നിക്കുകൾ മുതലായവ ഉപയോഗിച്ച് അത് സാധ്യമല്ല അതിനാൽ ഇത്തരത്തിലുള്ള ഡാറ്റയെ അഭിസംബോധന ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ പുതിയ രീതിശാസ്ത്രങ്ങളും പുതിയ ടൂളുകളും ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു അതിനാൽ സ്ലൈഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിലേക്ക് നമുക്ക് മടങ്ങാം അതിനാൽ ഞങ്ങൾ വലിയ അളവിലുള്ള ഡാറ്റയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് ജിഗാബൈറ്റിലും ടെറാബൈറ്റിലുമുള്ള ഡാറ്റയെക്കുറിച്ചല്ല പെറ്റാബൈറ്റുകൾ ഹെക്സാബൈറ്റുകൾ എന്നിങ്ങനെയുള്ള ഡാറ്റയെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ എങ്ങനെ സംഭരിക്കുന്നു അത്തരം ഡാറ്റ വളരെ പ്രധാനമാണ് വേഗത ജനറേഷൻ വേഗത പ്രതിദിനം ശരാശരി 100 ദശലക്ഷക്കണക്കിന് ട്വീറ്റുകൾ അതായത് ഡാറ്റയുടെ വലിയ വേഗത ഡാറ്റ സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ ഡാറ്റ ജനറേറ്റുചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡാറ്റ കൈകാര്യം ചെയ്യണം ഇത് ഉയർന്ന വേഗതയുള്ള ഡാറ്റയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് മറുവശത്ത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അതിനാൽ ഉയർന്ന വേഗതയിൽ വരുന്ന വലിയ അളവിലുള്ള ഡാറ്റ അവർ കൈകാര്യം ചെയ്യുന്നു അതിനാൽ പല എക്സ്ചേഞ്ചുകളും ഫിനാൻഷ്യൽ എക്സ്ചേഞ്ചുകളും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഡാറ്റയുടെ വേഗതയും വളരെ പ്രധാനമാണ് വെറൈറ്റി നമ്മൾ സംസാരിക്കുന്നത് വിവിധ തരത്തിലുള്ള ഡാറ്റയെ കുറിച്ചാണ് ടെക്സ്റ്റ് ഇമേജ് ഓഡിയോ വീഡിയോ മുതലായവ ഡാറ്റ ഫോർമാറ്റിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ എല്ലാ വ്യത്യസ്ത തരം ഡാറ്റകളും വേരിയബിലിറ്റി അതിനാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വൈവിധ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ അർത്ഥം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഡാറ്റയെക്കുറിച്ചാണ് ഉദാഹരണത്തിന് ഭാഷാ പ്രോസസ്സിംഗ് ഹാഷ് ടാഗുകൾ ജിയോ സ്പേഷ്യൽ ഡാറ്റ മൾട്ടിമീഡിയ ഡാറ്റ സെൻസർ ഡാറ്റ മുതലായവ സത്യസന്ധത ഡാറ്റയിലെ പക്ഷപാതത്തെ സൂചിപ്പിക്കുന്നു അത് ഡാറ്റയിലെ അസാധാരണത്വത്തെയും ശബ്ദത്തെയും കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഓട്ടോമേറ്റഡ് തീരുമാനമെടുക്കൽ ഉൾപ്പെടുന്ന പ്രോഗ്രാമുകളിൽ ഇത് പ്രധാനമാണ് ഡാറ്റയുടെ ഗുണമേന്മ മാത്രമല്ല ഡാറ്റയുടെ മനസ്സിലാക്കാവുന്നതിലും കൃത്യത ഇടപെടുന്നു ഈ കാര്യത്തിൽ ഡാറ്റ മനസ്സിലാക്കുന്നത് പ്രധാനമാണ് ഡാറ്റ മനസ്സിലാക്കുന്നത് വേഗതയിൽ പ്രധാനമാണ്

ദൃശ്യവൽക്കരണം വിഷ്വലൈസേഷൻ ഡാറ്റ ഏത് രൂപത്തിലാണ് ദൃശ്യവൽക്കരിക്കപ്പെടേണ്ടത് ഗ്രാഫിക്കൽ രൂപത്തിൽ വാചക രൂപത്തിൽ ദൃശ്യപരമായി തിരിച്ചറിയാൻ കഴിയുന്ന വ്യത്യസ്ത പാറ്റേണുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനാൽ ഈ ഡാറ്റയുടെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളെല്ലാം ഡാറ്റയുടെ ദൃശ്യവൽക്കരണം പ്രധാനമാണ് ചിതറിക്കിടക്കുന്ന ഡാറ്റയിൽ നിന്ന് അടിസ്ഥാനപരമായി ചില ബിസിനസ്സ് വിവരങ്ങൾ വേർതിരിച്ചെടുക്കുന്ന മൂല്യവും അതിനാൽ ഇത് അടിസ്ഥാനപരമായി വലിയ ഡാറ്റയുടെ മൂല്യ ആട്രിബ്യൂട്ട് ആണ് അപ്പോൾ ഡാറ്റയുടെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ് ഓൺലൈൻ ട്രേഡിംഗ് ഡാറ്റ വിശകലനം പ്രൊഡക്ഷൻ ഇൻവെന്ററി ഡാറ്റ വിൽപ്പന മറ്റ് സാമ്പത്തിക ഡാറ്റ എന്നിവയിൽ നിന്ന് എന്റർപ്രൈസ് ഡാറ്റ സൃഷ്ടിക്കാൻ കഴിയും എന്റർപ്രൈസ് ഡാറ്റയുടെ ചില ഉദാഹരണങ്ങളാണിവ വ്യാവസായിക ഡാറ്റ ആരോഗ്യ സംരക്ഷണ ഡാറ്റ കാർഷിക ഡാറ്റ മുതലായവ പോലുള്ള IoT ഡാറ്റ ബയോമെഡിക്കൽ ഡാറ്റ ജീൻ സീക്വൻസിംഗിൽ നിന്നും മെഡിക്കൽ ക്ലിനിക്കുകളിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ കൂടാതെ കമ്പ്യൂട്ടേഷണൽ ബയോളജി ഡാറ്റ ജ്യോതിശാസ്ത്ര ഡാറ്റ ന്യൂക്ലിയർ റിസർച്ച് ഡാറ്റ തുടങ്ങിയ മറ്റ് ഡാറ്റയും ഡാറ്റയുടെ വ്യത്യസ്ത ഉറവിടങ്ങളാണ് ജ്യോതിശാസ്ത്രം അതിനാൽ ഈ ദൂരദർശിനികളിൽ ചിലത് തുടർച്ചയായി ആകാശത്തേക്ക് നോക്കാൻ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ക്ലോക്കിൽ 365 ദിവസവും ഒരു വർഷവും ഇവ ആകാശത്തെ സ്കാൻ ചെയ്യുന്നു നിങ്ങൾക്ക് തുടർച്ചയായി മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ ഈ ദൂരദർശിനികളിൽ നിന്ന് ധാരാളം ഡാറ്റ വരുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യേണ്ടിവരും ഇവ വലിയ അളവുകളിൽ വരുന്ന ഡാറ്റയാണ് അതിനാൽ ഇവ ഡാറ്റയുടെ ചില ഉറവിടങ്ങളാണ് എന്നാൽ വ്യവസായങ്ങളുടെ പശ്ചാത്തലത്തിൽ സമാനമായി ഈ മെഷീനുകൾ സൈബർ ഫിസിക്കൽ സിസ്റ്റം മെഷീനുകൾ അവയുടെ തുടർച്ചയായ പ്രവർത്തന ഇടപെടലിന്റെ ഫലമായി തുടർച്ചയായി പ്രവർത്തിക്കുന്നു അങ്ങനെ അവ ഡാറ്റ സൃഷ്ടിക്കുന്നു ഇത് സാധാരണയായി ഘടനാപരമായതും ഘടനയില്ലാത്തതും അല്ലെങ്കിൽ ഘടനാരഹിതവുമായ ഡാറ്റയുടെ സംയോജനമാണ് ബിഗ് ഡാറ്റയ്ക്കും ഡാറ്റാ ശേഖരണത്തിനുമായി ഈ വ്യത്യസ്തമായ അനലിറ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇവ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഡാറ്റ ശേഖരിക്കേണ്ടതുണ്ട് അതിനാൽ ഉറവിടങ്ങൾ ലോഗ് ഫയലുകളിൽ നിന്നോ റെക്കോർഡ് ഫയലുകളിൽ നിന്നോ സെൻസറുകളിൽ നിന്നോ RFID ഉപകരണങ്ങൾ പോലെയുള്ള വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്നോ ആകാം ഇവ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നാകാം അപ്പോൾ ഡാറ്റാ ട്രാൻസ്മിഷൻ പ്രധാനമാണ് നമ്മൾ സംസാരിക്കുന്നത് ഡാറ്റ ഇന്റർ ഡിസിഎൻ ട്രാൻസ്മിഷനെക്കുറിച്ചും ഇൻട്രാ ഡിസിഎൻ ട്രാൻസ്മിഷനെക്കുറിച്ചും ആണ് എന്താണ് ഈ DCN DCN അടിസ്ഥാനപരമായി ഡാറ്റാ സെന്റർ നെറ്റ്വർക്കാണ് ഡാറ്റാ സെന്ററിന്റെ ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിനുള്ളിൽ അതായത് ഒരു ഡാറ്റാ സെന്ററിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന വ്യത്യസ്ത സെർവറുകൾ അതിനുള്ളിൽ ഡാറ്റാ ട്രാൻസ്മിഷൻ തുടർന്ന് ഒരു ഡാറ്റാ സെന്ററിൽ നിന്ന് മറ്റൊരു ഡാറ്റാ സെന്ററിലേക്ക് ഇന്റർ ഡേറ്റാ സെന്റർ നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ അത് മറ്റൊരു തരം ട്രാൻസ്മിഷൻ ആണ് അപ്പോൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യേണ്ടിവരും എന്നാൽ അതിനുമുമ്പ് അത് പ്രീ പ്രോസസ്സ് ചെയ്യണം നോയിസ് റിഡൻഡൻസി പൊരുത്തക്കേട് എന്നിവ നീക്കം ചെയ്യാൻ ഡാറ്റ മുൻകൂട്ടി പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് റിലേഷണൽ ഡാറ്റയുടെ ഈ പ്രീ പ്രോസസ്സിംഗ് പ്രധാനമായും ഇന്റഗ്രേഷൻ ക്ലിയറിംഗ് റിഡൻഡൻസി ലഘൂകരണം എന്നിവയെ പിന്തുടരുന്നു സംയോജനം അടിസ്ഥാനപരമായി വിവിധ ഉറവിടങ്ങളിൽ നിന്നുള്ള ഡാറ്റ സംയോജിപ്പിച്ച് ഉപയോക്താക്കൾക്ക് സ്ഥിരമായ ഡാറ്റ മൂല്യം നൽകുന്നു ക്ലിയറിംഗ് എന്നത് സ്പോട്ട് ആണ് എന്തെങ്കിലും തെറ്റോ അപര്യാപ്തമോ അല്ലെങ്കിൽ സഹകരിക്കാത്തതോ ആണെന്ന് കണ്ടെത്തിയാൽ അത്തരത്തിലുള്ള ഡാറ്റ കണ്ടെത്തുകയോ തിരുത്തുകയോ അല്ലെങ്കിൽ അവ നീക്കം ചെയ്യുകയോ ചെയ്യേണ്ടിവരും റിഡൻഡൻസി ലഘൂകരണം ഡാറ്റയിൽ എന്തെങ്കിലും ആവർത്തനം ഉണ്ടെങ്കിൽ ബാൻഡ്വിഡ്ത്തും വളരെ പരിമിതമായതിനാൽ അത്തരം അനാവശ്യ ഡാറ്റയുടെ ആവർത്തനം സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഫിൽട്ടറുകൾ അവിടെ ഉണ്ടായിരിക്കണം അതിനാൽ അനാവശ്യമായ ഡാറ്റ കൈമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഡാറ്റ സംഭരണം പ്രധാനമാണ് വലിയ ഡാറ്റ സംഭരിക്കുന്നതിനുള്ള ഫയൽ സിസ്റ്റങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അതിനാൽ വലിയ തോതിലുള്ള ഫയലുകളുടെ സംഭരണത്തിലും സംഭരണത്തിലും പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന ഒരു വിതരണം ചെയ്ത ഫയൽ സിസ്റ്റമാണ് GFS മറ്റൊന്ന് HDFS ആണ് HDFS അടിസ്ഥാനപരമായി ഹഡൂപ്പ് സാങ്കേതികവിദ്യയിൽ പിന്തുടരുന്ന ഒന്നാണ് ഹഡൂപ്പ് സിസ്റ്റം ഇത് വലിയ ഡാറ്റാ സന്ദർഭത്തിൽ ഡാറ്റ സംഭരണത്തിൽ ഉപയോഗിക്കുന്നതിന് വളരെ ജനപ്രിയമാണ് അതിനാൽ GFS ന്റെ ഓപ്പൺ സോഴ്സ് കോഴ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ശ്രദ്ധേയമായ ഫയൽ സിസ്റ്റമാണ് HDFS ഫയൽ സിസ്റ്റം അതിനാൽ വലിയ ഡാറ്റയുടെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വളരെ ജനപ്രിയമായ ഞങ്ങളുടെ ഫയൽ സിസ്റ്റങ്ങളായ GFS HDFS എന്നിവ ഡാറ്റാബേസുകൾ വ്യത്യസ്ത തരം നോൺ പരമ്പരാഗത ഡാറ്റാബേസ് ധരിക്കുന്ന നോൺ പരമ്പരാഗത റിലേഷണൽ ഡാറ്റാബേസ് NoSQL ഭാഷ പോലെയുള്ള ഡാറ്റാബേസുകൾ SQL പോലെ ഈ പരമ്പരാഗത റിലേഷണൽ ഡാറ്റാബേസുകളും നോൺ റിലേഷണൽ ഡാറ്റാബേസുകളും അന്വേഷിക്കുന്ന പരമ്പരാഗത റിലേഷണൽ ഡാറ്റാബേസുകൾക്കുള്ളതാണ് SQL NoSQL അന്വേഷണ ഭാഷ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സ് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് അതിനാൽ IoT IIoT Industry 4 0 എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്ന സെൻസറുകൾ വലുപ്പത്തിൽ വളരെ ചെറുതാണ് മാത്രമല്ല അവ എവിടെയും സ്ഥാപിക്കുകയും സെൻസറുകളിൽ നിന്നുള്ള ഈ ഡാറ്റ ചില നെറ്റ്വർക്കുകളിൽ സാധാരണയായി വയർലെസ് സ്വഭാവത്തിൽ കൈമാറുകയും ചെയ്യാം സിസ്റ്റങ്ങളിൽ നിന്ന് സിസ്റ്റങ്ങളിലേക്ക് നീങ്ങുന്ന ഡാറ്റയുടെ ഈ എക്സ്പ്രഷൻ ഈ വ്യത്യസ്ത സെൻസറുകൾ ഉപയോഗിക്കുകയും ഡാറ്റ ഒരു സെൻസറിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയും ചെയ്യും അതിനാൽ ചില ഡാറ്റ സിസ്റ്റങ്ങൾക്ക് അപ്രസക്തമാണ് അതിനാൽ ഏതൊക്കെ ഡാറ്റയാണ് പ്രസക്തവും അല്ലാത്തതും എന്ന് ഒരാൾക്ക് എങ്ങനെ അറിയാൻ കഴിയും അതുകൊണ്ടാണ് ഈ ഡാറ്റ വിശകലനം ചെയ്യേണ്ടത് കൂടാതെ നിങ്ങൾ വിശകലനം ചെയ്തുകഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ഫിസിക്കൽ സിസ്റ്റത്തിൽ ഭൌതിക പരിതസ്ഥിതിയിൽ നിങ്ങൾക്ക് ചില പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നതിന് ഒരു കാര്യം കൂടിയുണ്ട് അതിനാൽ ലഭിച്ച ഡാറ്റയുടെ വിശകലനത്തിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ആ സമവാക്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും അതിനാൽ അനലിറ്റിക്സ് വളരെ പ്രധാനമാണ് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അനലിറ്റിക്സ് ഉപഭോക്താവിനെ എതിരാളികളെ കുറിച്ച് പഠിക്കാനും എതിരാളികളെ കുറിച്ച് അറിയാനും ബിസിനസ്സ് വിപുലീകരിക്കാനും ചേരാനും പ്രവർത്തിക്കാനും ഉപഭോക്താവിനെ സഹായിക്കും തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകാനും വിപണിയുടെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്താനും ഉചിതമായ ഉൽപ്പന്ന ശുപാർശകൾ തിരഞ്ഞെടുക്കാനും ഉചിതമായ ഉൽപ്പന്ന ശുപാർശകൾ നൽകാനും ഉദാഹരണത്തിന് നിങ്ങൾ ആമസോണിലേക്കോ ഇബേയിലേക്കോ പ്രവേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിരീക്ഷിച്ചിരിക്കുകയോ ഫ്ലിപ്പ്കാർട്ടിനെപ്പോലുള്ള മറ്റെന്തെങ്കിലുമോ ആണെങ്കിൽ അവർ ശുപാർശ ചെയ്യുന്ന സംവിധാനങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നു അതിനാൽ ശുപാർശ ചെയ്യുന്ന സിസ്റ്റങ്ങൾ അടിസ്ഥാനപരമായി അവർ ചെയ്യുന്നത് AI അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റങ്ങളാണ് ചില സാങ്കേതിക വിദ്യകൾ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് അവർ ഡാറ്റ വിശകലനം ചെയ്യുന്നു കൂടാതെ അവർ അടുത്തതായി എന്തുചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഉപയോക്താവിന് ശുപാർശകളോ നിർദ്ദേശങ്ങളോ നൽകും അതിനാൽ ഇവയാണ് ശുപാർശ ചെയ്യുന്ന സംവിധാനങ്ങൾ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് പരമ്പരാഗത രീതിയിൽ നിന്ന് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് ഡാറ്റാബേസുകളിലും ഡാറ്റ വെയർഹൌസുകളിലും ആണ് ബിഗ് ഡാറ്റ ആപ്പുകൾ പരമ്പരാഗത ആപ്ലിക്കേഷനുകളിൽ അനുയോജ്യമാകില്ല പരമ്പരാഗത ഡാറ്റ വെയർഹൌസ് ആർക്കിടെക്ചറുകളിൽ വലിയ ഡാറ്റ ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാകില്ല കാരണം നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് വലിയ അളവിലുള്ള ഡാറ്റയെക്കുറിച്ചാണ് എക്സാഡാറ്റ ടെറാഡാറ്റ ഇൻഡസ്ട്രി 4 0 യ്ക്കായി ഞങ്ങൾ സംസാരിക്കുന്നത് ഇന്റർനെറ്റ് വ്യാവസായിക ഇന്റർനെറ്റ് എന്നിവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് അവയ്ക്ക് ആയിരക്കണക്കിന് സെൻസറുകളിൽ നിന്ന് വരുന്ന ഡാറ്റ കൈകാര്യം ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒരു സമീപനം ആവശ്യമാണ് കൃഷി ഉൾപ്പെടെയുള്ള മറ്റ് വ്യവസായങ്ങൾ നിർമ്മിക്കുന്ന ആരോഗ്യ സേവനങ്ങളിലെ ഈ വലിയ ഡാറ്റ കൈകാര്യം ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് പുതിയ കാര്യമല്ല ഉദാഹരണത്തിന് ഒരു ഇവന്റ് ഒരു സെൻസർ കണ്ടെത്തി പ്രവർത്തന റെക്കോർഡറിലേക്ക് അയയ്ക്കുന്നു അതിലെ ഒരു പ്രവർത്തന റെക്കോർഡർ ഡാറ്റ സംഭരിക്കുന്ന ഒരു ഡാറ്റാബേസാണ് അതിനുശേഷം ഈ മണിക്കൂറിലെ ഉൽപ്പാദനം സാധാരണയിൽ നിന്ന് എന്താണെന്ന് സിസ്റ്റത്തോട് അന്വേഷിച്ചുകൊണ്ട് ഈ ഡാറ്റ ഒപ്റ്റിമൈസ് ചെയ്യുന്നു അതിനാൽ ഡാറ്റയിൽ നിന്ന് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകാം അതിനാൽ ഇൻഡസ്ട്രി 4 0 ന്റെ പശ്ചാത്തലത്തിൽ ഈ വലിയ ഡാറ്റാ അനലിറ്റിക്സ് ഉപയോഗിക്കാൻ കഴിയുന്നത് അവിടെയാണ് അതിനാൽ IIoT ഒരു വലിയ ഗുണഭോക്താവോ വലിയ ഡാറ്റയോ ആയി തിരിച്ചറിയാം ആദ്യ ഡാറ്റ നിയന്ത്രിക്കുന്നതിന് ഇതിന് പുതിയ സാങ്കേതികവിദ്യകൾ ആവശ്യമാണ് ക്ലൌഡ് സഹായത്തിന് വരാം കാരണം ഡാറ്റ സംഭരിക്കുന്നതിനും ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനും ക്ലൌഡിന് സഹായിക്കാനാകും കാരണം സ്റ്റോറേജിൽ ഫലത്തിൽ ഒരു പരിധിയുമില്ല കാരണം എല്ലാം ആവശ്യാനുസരണം സ്റ്റോറേജ് ലഭിക്കുന്നു അതിനാൽ ഒരു ഓപ്പൺ സോഴ്സ് ക്ലൌഡ് അധിഷ്ഠിത വിതരണം ചെയ്ത ഡാറ്റ സ്റ്റോറേജ് പ്ലാറ്റ്ഫോമായ ഹഡൂപ്പ് പോലുള്ള ഡാറ്റാ സാങ്കേതികവിദ്യകളുടെ മാനേജ്മെന്റിൽ സഹായിക്കുന്നതിന് IIoT യിൽ വലിയ ഡാറ്റയായ ഇത്തരത്തിലുള്ള ഡാറ്റയുടെ വിശകലനത്തിനായി ക്ലൌഡ് ഉപയോഗിക്കാം അതിനാൽ വലിയ ഡാറ്റാ അനലിറ്റിക്സിന്റെ പശ്ചാത്തലത്തിൽ ഹഡൂപ്പ് വളരെ ജനപ്രിയമാണ് അതിനാൽ അനലിറ്റിക്സിനായുള്ള ക്ലൌഡ് അധിഷ്ഠിത രീതികൾ ഇതായിരിക്കും അതിനാൽ ഒന്നാമതായി ഡാറ്റ വലിയ ഡാറ്റ കൈകാര്യം ചെയ്യാൻ ക്ലൌഡ് ഉപയോഗിക്കാം കൂടുതൽ വ്യക്തമായി അതിനാൽ ആവശ്യാനുസരണം സെൽഫ് സർവീസ് ഇവയ്ക്ക് വ്യത്യസ്ത സവിശേഷതകളുണ്ട് ഉപയോക്താവിന് ആവശ്യമുള്ളതിനെ അടിസ്ഥാനമാക്കി ഡിമാൻഡ് ഓൺ ഡിമാൻഡ് കമ്പ്യൂട്ടേഷണൽ റിസോഴ്സുകളുടെ ഒരു സ്വയം സേവന രീതിയിലൂടെ കടന്നുപോകാൻ ക്ലൌഡ് അടിസ്ഥാനപരമായി സഹായിക്കുന്നു അതിനാൽ സ്കേലബിളിറ്റിയും വളരെ മികച്ചതാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു ക്ലൌഡിലാണ് വൈഡ് നെറ്റ്വർക്ക് ആക്സസ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് വ്യത്യസ്ത രീതികൾ ഗ്രൂപ്പുചെയ്യാനുള്ള കഴിവ് വേഗതയേറിയ വഴക്കം അളന്ന സേവനം വാഗ്ദാനം ചെയ്യുന്നു അളന്ന സേവനം അർത്ഥമാക്കുന്നത് ക്ലൌഡിന്റെ ഉപയോഗ യൂണിറ്റുകളെ അടിസ്ഥാനമാക്കി അതിനനുസരിച്ച് ഉപയോക്താവിന് നിരക്ക് ഈടാക്കും അതിനാൽ വ്യത്യസ്ത തരം അനലിറ്റിക്സ് ഉണ്ട് പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്താണ് മികച്ച പ്രവർത്തനത്തെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ ഇത് പരീക്ഷിക്കണോ എന്നതും മറ്റും പ്രവചന വിശകലനം അടുത്തത് എന്താണെന്നും അവിടെയുള്ള പാറ്റേൺ എന്താണെന്നും സംസാരിക്കുന്നു കൂടാതെ വിവരണാത്മക അനലിറ്റിക്സ് എപ്പോൾ എവിടെ മുതലായവ എന്താണ് സംഭവിച്ചത് ഇവയെല്ലാം വിവരണാത്മക വിശകലനങ്ങളാണ് പ്രവചനാത്മകവും പ്രിസ്ക്രിപ്റ്റീവും വിവരണാത്മകവുമായ അനലിറ്റിക്സ് അനലിറ്റിക്സിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് അതിനാൽ ബിഗ് ഡാറ്റയെയും അനലിറ്റിക്സിനെയും കുറിച്ചുള്ള ചില റഫറൻസുകളാണിത് അതിനാൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ റഫറൻസുകളിൽ ഏതെങ്കിലും ഒന്ന് പരിശോധിക്കാം എന്നാൽ വലിയ ഡാറ്റയിലും അനലിറ്റിക്സിലും നിലവിൽ ധാരാളം റഫറൻസുകൾ ഉണ്ട് മാത്രമല്ല നിങ്ങൾക്കായി ഉള്ള ഈ റഫറൻസുകളുടെ ലിസ്റ്റുകൾക്കപ്പുറവും നിങ്ങൾക്ക് പോകാം അതിനാൽ ഇതോടെ നമ്മൾ അനലിറ്റിക്സിന്റെ അവസാനത്തിലെത്തുന്നു ഒരു കാര്യം ഓർക്കുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനലിറ്റിക്സ് തുടങ്ങിയവ ഇൻഡസ്ട്രി 4 0 IIoT എന്നിവയിൽ നിന്ന് വ്യത്യസ്തവും വ്യത്യസ്തവുമായ ഫീൽഡുകളല്ല ഈ പ്രവർത്തനക്ഷമമാക്കുന്ന സാങ്കേതികവിദ്യകളില്ലാതെ മറ്റ് സാങ്കേതികവിദ്യകളെപ്പോലെ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി IoT സിസ്റ്റങ്ങളോ IIoT സിസ്റ്റങ്ങളോ നിർമ്മിക്കുന്നതിനോ വ്യവസായ 4 0 ന്റെ കാഴ്ചപ്പാട് കൈവരിക്കുന്നതിനോ അതിജീവിക്കാൻ കഴിയില്ല അതിനാൽ ഇൻഡസ്ട്രി 4 0 ലെ ബിഗ് ഡാറ്റ സന്ദർഭത്തിൽ ഡാറ്റയുടെ വിശകലനത്തിന് ഉപയോഗിക്കാവുന്ന ഡാറ്റയുടെ വിശകലനത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകളാണ് ഇവ